ആശംസകൾ മൂല്യനിർണ്ണയ ഘട്ടത്തിലെ മൊഡ്യൂൾ 2 യൂണിറ്റ് 14 ലേക്ക് സ്വാഗതം കഴിഞ്ഞ യൂണിറ്റിൽ നടപ്പിലാക്കൽ ഘട്ടത്തിന്റെ ഉപപ്രക്രിയകൾ ഞങ്ങൾ മനസ്സിലാക്കി ഈ യൂണിറ്റിന്റെ ഫലം ഇതായിരിക്കും മൂല്യനിർണ്ണയ ഘട്ടത്തിന്റെ ഉപ പ്രക്രിയകൾ മനസിലാക്കുക കോഴ്സ് രൂപകൽപ്പനയ്ക്കായി ഞങ്ങൾ ഉപയോഗിച്ച ADDIE മോഡലിൽ വിലയിരുത്തൽ ഘട്ടം അവസാന ഘട്ടമാണ് ഇത് സമ്മേറ്റിവ് ഘട്ടമാണ് എന്നിരുന്നാലും ഈ ഡയഗ്രം പരിശോധിക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വിലയിരുത്തൽ സംഭവിക്കുന്നതായി കാണാം

ഒരു "വിലയിരുത്തൽ" ഉണ്ട് അത് അവസാനം ഉള്ള സമ്മേറ്റിവ്ഘട്ടമാണ് വിശകലനം രൂപകൽപ്പന വികസനം നടപ്പിലാക്കുക തുടർന്ന് വിലയിരുത്തുക എന്നാൽ ഓരോ ഘട്ടത്തിലും ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു "വിലയിരുത്തൽ" ഉണ്ട് തിരശ്ചീന വരികൾ വിശകലന ഘട്ടം ഡിസൈൻ ഘട്ടം വികസന ഘട്ടം നടപ്പാക്കൽ ഘട്ടം എന്നിവ നിങ്ങൾ കാണുകയാണെങ്കിൽ അവയെല്ലാം വിലയിരുത്തലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനർത്ഥം അതിന്റെ ഫോർമാറ്റീവ് മോഡിൽ വിലയിരുത്തൽ ഘട്ടം മറ്റെല്ലാ ഘട്ടങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ആ ഘട്ടത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും പുനരവലോകനങ്ങൾ ആവശ്യമാണോ എന്ന് തീരുമാനിക്കുന്നത് ഓരോ ഘട്ടത്തിൻറെയും അവസാനത്തിൽ ഫോർമാറ്റീവ് വിലയിരുത്തൽ ഏറ്റെടുക്കുന്നു ADDIE മോഡലിലെ സാഹിത്യത്തിൽ ചില രചയിതാക്കൾ ADDIE മോഡലിനെ കർശനമായി തുടർച്ചയായ യാതൊരു ഫീഡ്ബാക്ക് ലൂപ്പുകളും ഇല്ലാത്ത ഒരു മോഡലായി ഉപയോഗിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നു ആ അടിസ്ഥാനത്തിൽ മോഡലിനെ വളരെ കർക്കശമാണെന്ന് വിമർശിക്കുന്നു അതേസമയം ADDIE മോഡലിന് നിലവിൽ സ്വീകരിച്ച സ്റ്റാൻഡേർഡ് രൂപത്തിലെങ്കിലും ഓരോ ഘട്ടത്തിലും ഫീഡ്ബാക്കുകൾ ഉണ്ട് ഓരോ ഘട്ടത്തിനും ശേഷം അത് ഒരു വിലയിരുത്തലിലൂടെ കടന്നുപോകുന്നു വിലയിരുത്തൽ ഘട്ടം ഒരു പുനരവലോകനം ആവശ്യമാണെന്ന് സൂചിപ്പിക്കുന്നുവെങ്കിൽ ആ ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വീണ്ടും സന്ദർശിക്കുന്നു ഓരോ ഘട്ടത്തിൻറെയും അവസാനം ഞങ്ങൾക്ക് ഒരു വിലയിരുത്തൽ പ്രക്രിയ നടക്കുന്നു എന്നാൽ ഈ യൂണിറ്റിൽ ADDIE മോഡലിന്റെ സമ്മേറ്റിവ് അവസാന ഘട്ടമായി ഞങ്ങൾ വിലയിരുത്തൽ ഘട്ടത്തിലേക്ക് നോക്കുന്നു ഈ ഘട്ടത്തിൽ ഉള്ളടക്കത്തിന്റെ പുനരവലോകനവും ഞങ്ങളുടെ നിർദ്ദേശവും ആവശ്യമാണോ എന്ന് തീരുമാനിക്കാൻ ഞങ്ങൾ പഠിതാക്കളെയും നിർദ്ദേശ സംവിധാനത്തെയും അന്വേഷിക്കുന്നു ഈ സാഹചര്യത്തിൽ നിർദ്ദേശത്തിന്റെ അടുത്ത പതിപ്പിനൊപ്പം പ്രക്രിയ ആവർത്തിക്കപ്പെടും മൂല്യനിർണ്ണയം രണ്ട് മോഡുകളിലാണ് സംഭവിക്കുന്നത് ഓരോ ഘട്ടത്തിന്റെയും അവസാനം ആ ഘട്ടത്തിലെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ വീണ്ടും സന്ദർശിക്കേണ്ടതുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ കോഴ്സ് രൂപകൽപ്പന ഡെലിവറി അതിന്റെ നടപ്പാക്കൽ എന്നിവ കണക്കിലെടുത്ത് മൊത്തത്തിലുള്ള മോഡലിന്റെ ഫലപ്രാപ്തി നിർണ്ണയിക്കുന്നതിനുള്ള അവസാന സമ്മേറ്റിവ് ഘട്ടമായി 4 ഘട്ടങ്ങളുടെ അവസാനത്തിൽ അടുത്ത തവണ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ അതാണ് സമ്മേറ്റിവ് കടമ ഘട്ടം വിലയിരുത്തുക സമ്മറ്റിവ് കോഴ്സ് രൂപകൽപ്പനയുടെ ഓരോ ഉദാഹരണവും അതിന്റെ പെരുമാറ്റവും വിലയിരുത്തണം കാരണം ഓരോ ഡെലിവറിയും ഒരു സവിശേഷ ഉദാഹരണമാണ് ഞങ്ങൾക്ക് ഘട്ടം ഘട്ടമായുള്ള വിശകലനം രൂപകൽപ്പന വികസനം എന്നിവ ഉണ്ടെങ്കിലും ഓരോ നടപ്പാക്കലും ഒരു സവിശേഷ ഉദാഹരണമാണ് അതിനാൽ കോഴ്സ് ഫലങ്ങളുടെ മികച്ച നേട്ടത്തിനായി ആസൂത്രണം ചെയ്യുന്നതിനും കോഴ്സ് ഫലങ്ങളുടെ മികച്ച നേട്ടം കൈവരിക്കുന്നതിനും പ്രോഗ്രാം ഫലങ്ങളുടെ മികച്ച നേട്ടവും കോഴ്സ് വാഗ്ദാനത്തിന്റെ അടുത്ത സന്ദർഭത്തിൽ പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളും നേടാൻ ഞങ്ങൾക്ക് കഴിയണം ഈ മെച്ചപ്പെടുത്തൽ പ്രവർത്തനം രണ്ട് തലങ്ങളിൽ സംഭവിക്കുന്നു കോഴ്സ് തലത്തിൽ ഗുണനിലവാരലൂപ്പ് കോഴ്സ് ഫലങ്ങളുടെ നേട്ടത്തിന്റെ തോത് അടുത്ത തവണ മികച്ചതാക്കി അടക്കുന്നു പ്രോഗ്രാം തലത്തിൽ പ്രോഗ്രാം ഫലങ്ങളുടെ നേട്ടത്തിന്റെ തോതും പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളും അടുത്ത തവണ മെച്ചപ്പെടുത്തി ഞങ്ങൾ ഉറപ്പാക്കുന്നു ഇൻസ്ട്രക്ടർക്കും സമപ്രായക്കാർക്കും വിദ്യാർത്ഥികൾക്കും സ്വയം വിലയിരുത്തൽ നടത്താം വാസ്തവത്തിൽ വിദ്യാർത്ഥികൾ തീർച്ചയായും മൂല്യനിർണ്ണയം നടത്തുന്നത് അഭികാമ്യമാണ് സാധ്യമെങ്കിൽ സമപ്രായക്കാർക്കും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഫീഡ്ബാക്കും അടുത്ത തവണ കോഴ്സ് ഡെലിവറിയുടെ വികസനത്തിന് അടിസ്ഥാനമാകും വിലയിരുത്തൽ ഘട്ടത്തിന്റെ നിരവധി ഉപ പ്രക്രിയകൾ ഉണ്ട് ഞങ്ങൾക്ക് കോഴ്സ് എക്സിറ്റ് സർവേയുണ്ട് അടുത്ത യൂണിറ്റിൽ ഞങ്ങൾ ഇത് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യും കോഴ്സിന്റെ സി കളുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ നേട്ടം കണക്കാക്കുന്നു ഡിസൈൻ ഘട്ടത്തിൽ സിഒകൾക്കായി നേടേണ്ട ടാർഗെറ്റ് ലെവലുകൾ ഞങ്ങൾ ഇതിനകം സജ്ജമാക്കിയിട്ടുണ്ടെന്ന കാര്യം ശ്രദ്ധിക്കുക ഡിസൈൻ ഘട്ടത്തിൽ സിഒകളുടെ നേട്ടത്തിനായി ഞങ്ങൾ ചില ടാർഗെറ്റ് ലെവലുകൾ നിശ്ചയിച്ചിട്ടുണ്ട് കൂടാതെ വിലയിരുത്തൽ ഘട്ടത്തിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ സിഒകളുടെ പ്രത്യക്ഷവും പരോക്ഷവുമായ നേട്ടങ്ങൾ കണക്കാക്കുന്നു ടാർഗെറ്റ് ലെവലുകൾ യഥാർത്ഥ നേട്ടങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി സിഒ നേട്ടങ്ങളിലെ വിടവുകൾ നികത്തുന്നതിനുള്ള നടപടികൾ നിർദ്ദേശിക്കുന്നു ടാർഗെറ്റ് ലെവലിൽ എത്തിച്ചേരൽ ലെവലിൽ എത്തിയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ലെവൽ ടാർഗെറ്റ് എത്തിച്ചേരൽ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിലോ ടാർഗെറ്റ് ലെവലുകൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും സിഒകളുടെ നേട്ടത്തിലൂടെ പിഒകളുടെയും പിഎസ്ഒകളുടെയും നേട്ടം കണക്കാക്കേണ്ടതുണ്ട് നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഓരോ നിർദ്ദേശയൂണിറ്റിനു ശേഷവും ഞങ്ങൾ നിരീക്ഷണങ്ങൾ നടത്തുമായിരുന്നു ഓരോ ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിനു ശേഷവും ഇൻസ്ട്രക്ടർ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുമായിരുന്നു ഇവയെല്ലാം അടിസ്ഥാനമാക്കി കോഴ്സിന്റെ "നടപ്പാക്കൽ" സംബന്ധിച്ച് നമുക്ക് സമ്മേറ്റിവ് നിരീക്ഷണങ്ങൾ നടത്താം എന്തെങ്കിലും ലഭ്യമാണെങ്കിൽ പിയർ സമൻമാരുടെ ഫീഡ്ബാക്ക് മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മറ്റ് ഉറവിടങ്ങൾ ലഭ്യമാണെങ്കിൽ ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് നേടാനും കഴിയും മൂല്യനിർണ്ണയ ഘട്ടത്തിന്റെ ഔട്ട്പുട്ടുകൾ പിയർ അവലോകനം ചെയ്യുക മൂല്യനിർണ്ണയ ഘട്ടം പോലും യഥാർത്ഥത്തിൽ ലംബ മൂല്യനിർണ്ണയ ബ്ലോക്കിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധിക്കുക അതിനർത്ഥം ഈ ഘട്ടം പോലും വിലയിരുത്തേണ്ടതുണ്ട് എന്നാണ് അതിനാൽ ഈ മോഡലിൽ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ബന്ധം ഉണ്ട് ഒരു ഘട്ടത്തിന്റെ ഔട്ട്പുട്ട് അടുത്ത ഘട്ടത്തിലേക്ക് ഇൻപുട്ടായി മാറുന്നു എന്നാൽ ഓരോ ഘട്ടത്തിന്റെയും അവസാനം സമാന്തര മൂല്യനിർണ്ണയ ഘട്ടമുണ്ട് അത് ഞങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് മൂല്യനിർണ്ണയ ഘട്ടത്തിന്റെ അവസാനത്തിൽ ഞങ്ങൾ ഉൽപാദിപ്പിക്കുന്ന പ്രമാണങ്ങളും മെച്ചപ്പെടുത്തൽ പദ്ധതികളും മറ്റ് പദ്ധതികളും ഞങ്ങളുടെ പക്കലുള്ളത് സാധുവായ ഒരു വിവരമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി അവയെല്ലാം സമഗ്രമായി അവലോകനം ചെയ്യണം കോഴ്സ് എക്സിറ്റ് സർവേയാണ് ഒരു പ്രധാന കാര്യം അടുത്ത യൂണിറ്റിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി ചർച്ചചെയ്യും ഇത് സമ്മേറ്റിവ് പ്രകൃതിയാണ് മാത്രമല്ല കോഴ്സ് വീണ്ടും വാഗ്ദാനം ചെയ്യുമ്പോൾ നടപ്പാക്കൽ മെച്ചപ്പെടുത്തുന്നതിന് ഇത് വളരെ ഉപയോഗപ്രദവുമാണ് വിദ്യാർത്ഥികൾ ഈ ഡാറ്റ നൽകുന്നു മാത്രമല്ല സിഒകളുടെ പരോക്ഷ നേട്ടം കണക്കാക്കാനും ഇത് ഉപയോഗിക്കാം അതിനാൽ കോഴ്സ് എക്സിറ്റ് സർവേയിൽ നിന്നുള്ള ഡാറ്റ നടപ്പിലാക്കൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇൻപുട്ടുകൾ നൽകുന്നു അതുപോലെ തന്നെ സിഒകളുടെ പരോക്ഷ നേട്ടം കണക്കാക്കുന്നതിനുള്ള ഡാറ്റയും ഇത് നൽകുന്നു പ്രാഥമികമായി മുമ്പത്തെ മൊഡ്യൂളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് സിഒകളുടെ നേട്ടം കണക്കാൽ എല്ലാ മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ ആന്തരിക പരിശോധനകൾ ക്വിസുകൾ അസൈൻമെന്റുകൾ സെമസ്റ്റർ പരീക്ഷകൾ എന്നിവയിലെ വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നിരുന്നാലും കോഴ്സ് എക്സിറ്റ് സർവേയിലൂടെ ഞങ്ങൾക്ക് നേട്ടം പരോക്ഷമായ രീതിയിൽ കണക്കാക്കാം അത് എങ്ങനെ ചെയ്യാം അടുത്ത യൂണിറ്റിൽ ഞങ്ങൾ ഇത് കാണും സിഒകൾ കൈവരിക്കുന്നതിനുള്ള ഒരു ടാർഗെറ്റ് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഇത് ഞങ്ങൾ കണ്ടത് ഡിസൈൻ ഘട്ടത്തിലാണ് അപ്പോൾ നേട്ടത്തിലെ വിടവും കണക്കാക്കണം ടാർഗെറ്റും യഥാർത്ഥ നേട്ടവും തമ്മിലുള്ള അന്തരം പോസിറ്റീവ് ആണെങ്കിൽ വിടവ് കുറയ്ക്കാൻ കഴിയുന്ന അധിക നിർദ്ദേശ പ്രവർത്തനങ്ങൾക്കായി ഇൻസ്ട്രക്ടർ ആസൂത്രണം ചെയ്യണം ടാർഗെറ്റ് ലെവലിനേക്കാൾ കൈവരിക്കൽ നില കുറവാണെങ്കിൽ അടുത്ത തവണ കോഴ്സ് ഡെലിവർ ചെയ്യുമ്പോൾ മെച്ചപ്പെടുത്തലുകൾക്കായി ഞങ്ങൾ ആസൂത്രണം ചെയ്യണം അങ്ങനെ വിടവ് കുറയുന്നു മറുവശത്ത് കൈവരിക്കൽ നില ടാർഗെറ്റ് ലെവലിനു തുല്യമോ ടാർഗെറ്റ് ലെവലിനേക്കാൾ വലുതോ ആണെങ്കിൽ അതിനർത്ഥം വിടവ് 0 അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ടാർഗെറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയും ലക്ഷ്യം കൈവരിക്കുമ്പോഴും അത് അതേപടി നിലനിർത്താൻ ഇൻസ്ട്രക്ടർ ആഗ്രഹിക്കുന്നുണ്ടാകാം അങ്ങനെയാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ ഇൻസ്ട്രക്ടർ പറയേണ്ടതുണ്ട് ഒരുപക്ഷേ ഈ ബാച്ചിനായി ഞങ്ങൾ അത് നേടിയിരിക്കാം അടുത്ത ബാച്ചിനും ഇൻസ്ട്രക്ഷണൽ ഡെലിവറി മികച്ചതാണോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല അതിനാൽ നിങ്ങൾ ഒരു ബാച്ചിന് കൂടി കാണാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ ബാച്ചിന് പോലും നിശ്ചിത ടാർഗെറ്റുകൾ നേടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ടാർഗെറ്റ് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരേ ടാർഗെറ്റ് ലെവൽ നിലനിർത്തുന്നതിന് ഇൻസ്ട്രക്ടർക്ക് ഇതുപോലുള്ള ചില ന്യായവാദങ്ങൾ ഉണ്ടായിരിക്കാം അത് അങ്ങനെയാണെങ്കിൽ ഇൻസ്ട്രക്ടർ ആ കാരണങ്ങൾ വ്യക്തമാക്കണം ഒന്നുകിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കാത്തപ്പോൾ ലക്ഷ്യം കൈവരിക്കാത്തപ്പോൾ അതേ ലക്ഷ്യം നിലനിർത്തുകയോ അല്ലെങ്കിൽ ലക്ഷ്യം കൈവരിക്കുമ്പോൾ ലക്ഷ്യം വർദ്ധിപ്പിക്കുകയോ ചെയ്യുമ്പോൾ വിടവ് കുറയ്ക്കുന്നതിന് നേട്ടങ്ങൾ ഉയർത്തുന്നതിനായി ഞങ്ങൾ മെച്ചപ്പെടുത്തലുകൾ ആസൂത്രണം ചെയ്യുന്നു അതിനാൽ ഈ പ്രവർത്തനങ്ങളിലൊന്ന് ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് വിലയിരുത്തൽ ഘട്ടത്തിന്റെ ഭാഗമാണ് കോഴ്സ് ഫലങ്ങളുടെ നേട്ടങ്ങളെ അടിസ്ഥാനമാക്കി പിഒകളുടെയും പിഎസ്ഒകളുടെയും നേട്ടം കണക്കാക്കേണ്ടതുണ്ട് ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന്റെ പ്രധാന ഘടകങ്ങൾ കോഴ്സുകളാണ് പ്രത്യേകിച്ചും കോർ കോഴ്സുകൾ കൂടാതെ പിഒകളും പിഎസ്ഒകളും പ്രധാനമായും നേടേണ്ടത് കോഴ്സുകളിലൂടെയാണ് കോ കരിക്കുലർ പാഠ്യേതര പ്രവർത്തനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും ഒരുപക്ഷേ പിഒകളുടെയും പിഎസ്ഒകളുടെയും നേട്ടത്തിന് കാരണമാകുന്നു വലിയതോതിൽ പിഒകളും പിഎസ്ഒകളും കോഴ്സുകളിലൂടെ നേടേണ്ടതുണ്ട് സിഒകളുടെ നേട്ടത്തിൽ നിന്ന് പിഒകളുടെയും പിഎസ്ഒകളുടെയും കണക്കുകൂട്ടൽ ചെയ്യേണ്ടതുണ്ട് വ്യക്തമായും ഓരോ സിഒയും പിഒകളുടെയും പിഎസ്ഒകളുടെയും ഒരു ഉപസെറ്റിനെ അഭിസംബോധന ചെയ്യുന്നു കൂടാതെ ഓരോ സിഒയും അഭിസംബോധന ചെയ്ത പിഒകളുമായും പിഎസ്ഒകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു പരസ്പര ബന്ധത്തിന്റെ ശക്തി കുറഞ്ഞതോ മിതമായതോ ഉയർന്നതോ ആകാമെന്ന് ഞങ്ങൾ മുമ്പത്തെ യൂണിറ്റുകളിൽ കണ്ടു പരസ്പര ബന്ധത്തിന്റെ ശക്തിയും സിഒകളുടെ യഥാർത്ഥ നേട്ടത്തിന്റെ നിലവാരവും അനുസരിച്ച് പിഒകളുടെയും പിഎസ്ഒകളുടെയും നേട്ടത്തിന്റെ അളവ് കണക്കാക്കേണ്ടതുണ്ട് പിഒകളുടെയും പിഎസ്ഒകളുടെയും നേട്ടം കണക്കാക്കാൻ സവിശേഷമായ ഒരു പ്രക്രിയയും ഇല്ല മുമ്പത്തെ മൊഡ്യൂളിൽ പിഒകളുടെയും പിഎസ്ഒകളുടെയും നേട്ടങ്ങൾ കണക്കാക്കാൻ കഴിയുന്ന ഒരു ലളിതമായ പ്രക്രിയ ഞങ്ങൾ നൽകി അത് പരസ്പര ബന്ധത്തിന്റെ ശക്തിയെയും അനുബന്ധ സിഒകളുടെ യഥാർത്ഥ നേട്ടത്തെയും ആശ്രയിച്ചിരിക്കും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് പ്രക്രിയയും അത് നടപ്പിലാക്കാൻ ന്യായമായും ലളിതമായിരിക്കണം കാരണം ഇത് എല്ലാ കോഴ്സുകളിലും നടപ്പാക്കേണ്ടതുണ്ട് മാത്രമല്ല ഒരു സ്ഥാപനത്തിന്റെ എല്ലാ പ്രോഗ്രാമുകളുടെയും എല്ലാ കോഴ്സുകൾക്കും ഇത് പാലിക്കേണ്ടതുണ്ട് അതിനാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലുടനീളം പ്രോഗ്രാമുകൾക്കുടനീളം എല്ലാ കോഴ്സുകളിലുടനീളം ഒരു പൊതു പ്രക്രിയ നടത്തേണ്ടത് അത്യാവശ്യമാണ് ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്ത ലളിതമായ ഒരു പ്രക്രിയ സ്വീകരിക്കാം മറ്റേതെങ്കിലും പ്രക്രിയയോ ആ പ്രക്രിയയുടെ വ്യതിയാനങ്ങളോ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൊതുവേയുള്ളിടത്തോളം കാലം നല്ലതാണ് നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഓരോ ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിനുശേഷവും ഇൻസ്ട്രക്ടർ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും ഞങ്ങൾ കണ്ടു ഓരോ ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിനുശേഷവും ഈ നിരീക്ഷണങ്ങൾ നൽകുന്നു വിദ്യാർത്ഥികൾക്ക് നൽകിയ വിദ്യാർത്ഥി പ്രകടനത്തെക്കുറിച്ചുള്ള ഫീഡ്ബാക്കും ഞങ്ങളുടെ പക്കലുണ്ട് ഓരോ മൂല്യനിർണ്ണയത്തിനും ശേഷം ഓരോ ക്വിസിനു ശേഷമോ അല്ലെങ്കിൽ ഓരോ ടെസ്റ്റിനു ശേഷമോ അല്ലെങ്കിൽ ഓരോ അസൈൻമെന്റ് സമർപ്പിച്ചതിനുശേഷമോ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രകടനത്തെക്കുറിച്ച് ഫീഡ്ബാക്ക് നൽകുന്നു മിഡ് കോഴ്സ് സർവേയിൽ വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിക്കുന്ന ഫീഡ്ബാക്ക് ലഭ്യമാണ് കോഴ്സിന്റെ അവസാനം വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക് ഒരു കോഴ്സ് എക്സിറ്റ് സർവേ ലഭ്യമാണ് ഓരോ നിർദ്ദേശ യൂണിറ്റിനുശേഷവും ഞങ്ങൾക്ക് നിരീക്ഷണങ്ങൾ ഉണ്ട് ഓരോ വിലയിരുത്തലിനുശേഷമുള്ള ഫീഡ്ബാക്ക് മിഡ് കോഴ്സ് സർവേകളിലെ ഫീഡ്ബാക്ക് ഒന്നോ അതിലധികമോ കോഴ്സ് എക്സിറ്റ് സർവേ ഡാറ്റ ഇവയെല്ലാം അടിസ്ഥാനമാക്കി ഇൻസ്ട്രക്ടർ സംഗ്രഹ നിരീക്ഷണങ്ങൾ എഴുതണം ഈ സംഗ്രഹ നിരീക്ഷണങ്ങൾ അടുത്ത തവണ കോഴ്സ് ഓഫർ ചെയ്യുമ്പോൾ പ്രബോധന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഇൻസ്ട്രക്ടർക്ക് വളരെ വിലപ്പെട്ടതായിരിക്കും ഈ സംഗ്രഹ നിരീക്ഷണങ്ങളിൽ ആസൂത്രിത മണിക്കൂറുകളിൽ സാമഗ്രികൾ മുഴുമിപ്പിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉള്ള മേഖലകൾ എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ആവശ്യമായ മുൻവ്യവസ്ഥാ പരിജ്ഞാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുള്ളതാണെന്ന് തെളിയിക്കുന്ന സിഒകൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ സംഗ്രഹ നിരീക്ഷണങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് മാത്രമല്ല അടുത്ത തവണ കോഴ്സ് നൽകുമ്പോൾ പ്രബോധന നിലവാരത്തിലെ മെച്ചപ്പെടുത്തലുകൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള അടിസ്ഥാനമാണിത് ഇൻസ്ട്രക്ടർക്ക് ഒരു സഹപ്രവർത്തകനോട് സെഷനുകളും പ്രബോധന സാമഗ്രികളും നടത്തുന്നത് നിരീക്ഷിക്കാൻ അഭ്യർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇത് വളരെ വിലപ്പെട്ടതാണ് കാരണം ഇത് നടപ്പിലാക്കുന്നതിന് ഗണ്യമായ സഹകരണഅന്തരീക്ഷം ആവശ്യമാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഫീഡ്ബാക്ക് വിലയിരുത്തലിനായി മാത്രം ഉപയോഗിക്കുന്നു മാത്രമല്ല ഇത് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിഗത ഫീഡ്ബാക്കായോ വ്യക്തിപരമായ അപമാനമായോ കണക്കാക്കില്ല സഹകരണത്തിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം അത് ലഭ്യമാണെങ്കിൽ സെഷനുകളുടെ നടത്തിപ്പിനെക്കുറിച്ചും നിർദ്ദേശപരമായ കാര്യങ്ങളെക്കുറിച്ചും നിരീക്ഷണങ്ങൾ നൽകാൻ ഇൻസ്ട്രക്ടർക്ക് സഹപ്രവർത്തകനോട് അഭ്യർത്ഥിക്കാൻ കഴിയും കൂടാതെ സാധാരണഗതിയിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും മൂല്യനിർണ്ണയ ഉപകരണങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടു ഭാഷയുമായി ബന്ധപ്പെട്ട മൂല്യനിർണ്ണയ ഉപകരണങ്ങളുടെ ഗുണനിലവാരം വ്യക്തത സിഒകളുടെ കവറേജ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന വൈജ്ഞാനിക തലങ്ങൾ അനുബന്ധ സിഒകളുടെ കോഗ്നിറ്റീവ് ലെവലുകൾ ഈ പ്രശ്നങ്ങളെല്ലാം സംബന്ധിച്ച് സാധാരണയായി ഒരു സൂക്ഷ്മപരിശോധന പ്രക്രിയ നിലവിലുണ്ട് അവിടെ വിലയിരുത്തൽ ഉപകരണങ്ങൾ അവലോകനം ചെയ്യും ഈ കമ്മിറ്റി നൽകുന്ന ഫീഡ്ബാക്ക് അടിസ്ഥാനപരമായി സമിതിയിൽ സഹപ്രവർത്തകർ ഉൾപ്പെടുന്നു കോഴ്സ് അടുത്ത തവണ ഡെലിവർ ചെയ്യുമ്പോൾ അത് മെച്ചപ്പെടുത്തുന്നതിനായി ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കുന്നതിനും സഹായകമാകും കൂടാതെ അദ്ധ്യാപനസാമഗ്രികൾ പഠനസാമഗ്രികൾ സെഷനുകളുടെ യഥാർത്ഥ നടത്തിപ്പ് എന്നിവ കാണാനും ഫീഡ്ബാക്ക് നൽകാനും സഹപ്രവർത്തകരോട് അഭ്യർത്ഥിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഒരു സഹപ്രവർത്തകന്റെ കണ്ണിലൂടെ കാണുന്നതുപോലെ കോഴ്സ് കാണാൻ ഇത് ഞങ്ങളെ അനുവദിക്കുന്നു കൂടാതെ കോഴ്സിന്റെ മെച്ചപ്പെടുത്തലുകൾ ആസൂത്രണം ചെയ്യാനും ഈ വിവരങ്ങൾ ഉപയോഗിക്കാം അതിനാൽ ഞങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കേണ്ട ഒന്നിലധികം ഉറവിടങ്ങളുണ്ട് അടുത്ത തവണ ഡെലിവർ ചെയ്യുമ്പോൾ കോഴ്സിന്റെ മെച്ചപ്പെടുത്തലുകൾ ആസൂത്രണം ചെയ്യുന്നതിന് ഈ വിവരങ്ങൾ എല്ലാം ഒരുമിച്ച് ചേർക്കുന്നു ചില സ്ഥാപനങ്ങളിൽ ഒന്നുകിൽ ഇൻസ്ട്രക്ടർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തുപോകുന്നതിനാലോ അല്ലെങ്കിൽ ഈ ഇൻസ്ട്രക്ടറെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കോഴ്സ് ഉള്ളതിനാലോ ഇൻസ്ട്രക്ടർ അടുത്ത തവണ കോഴ്സ് നൽകാതിരിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ഒരുതരം കോഴ്സ് ഫയലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ നിരീക്ഷണങ്ങളെല്ലാം അടുത്ത തവണ കോഴ്സ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഇൻസ്ട്രക്ടർക്ക് വളരെ സഹായകരമാകുമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ആ അർത്ഥത്തിൽ ഈ വിവരങ്ങൾ മൊത്തം സ്വഭാവമുള്ളതായിരിക്കണം മാത്രമല്ല ഇത് വകുപ്പിന്റെ ഒരു സ്വത്തായി മാറുകയും വേണം വകുപ്പ് തലത്തിൽ പരിപാലിക്കുന്നത് ഇത് ഒരു സംഭരണിയായി കണക്കാക്കണം ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പരിപാലിക്കുന്നു അതിനാൽ ഒരു ഇൻസ്ട്രക്ടർ അതിനെ വകുപ്പിനുള്ള സംഭാവനയായി കാണണം അതേ ഇൻസ്ട്രക്ടർ അടുത്ത തവണ കോഴ്സ് നൽകാൻ പദ്ധതിയിട്ടിട്ടില്ലെങ്കിലും ഈ വിവരങ്ങൾ ജാഗ്രതയോടെ രേഖപ്പെടുത്തുകയും ആസൂത്രണ പ്രക്രിയയിലേക്ക് പോകുന്ന എല്ലാ ഡാറ്റയും ലഭ്യമായിരിക്കുകയും വേണം തുടർന്നുള്ള ഡെലിവറിയിൽ കോഴ്സിന്റെ യഥാർത്ഥ ഉള്ളടക്കത്തിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് കോർ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും മാറ്റങ്ങൾ സംഭവിക്കുന്നത് വളരെ കുറവാണ് പക്ഷേ തത്ത്വത്തിൽ ഒരു ടയർ I ഇൻസ്റ്റിറ്റ്യൂട്ടിന് കോർ കോഴ്സുകൾക്ക് പോലും കോഴ്സ് ഉള്ളടക്കത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും എലക്ടീവ് കോഴ്സുകളുടെ കാര്യത്തിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാം പക്ഷേ കോഴ്സിൽ അത്തരം മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ഞങ്ങൾ ശേഖരിച്ച വിവരങ്ങളുടെ ഒരു ഭാഗം വളരെ പ്രസക്തമല്ലായിരിക്കാം എന്നാൽ ശേഖരിച്ച ഫീഡ്ബാക്കിന്റെ ഗണ്യമായ ഒരു ഭാഗം കോഴ്സ് മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളുടെ ഗണ്യമായ ഭാഗം അവ പ്രസക്തമായി തുടരും അതിനാൽ കോഴ്സ് ഉള്ളടക്കങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ പോലും ഈ പ്രക്രിയ ശ്രദ്ധാപൂർവ്വം പിന്തുടരുകയും ആവശ്യമായ എല്ലാ ഡാറ്റയും ശേഖരിക്കുകയും റെക്കോർഡു ചെയ്യുകയും വേണം അടുത്ത തവണ ഡെലിവറി ചെയ്യുമ്പോൾ കോഴ്സ് മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇത്തരത്തിലുള്ള പദ്ധതി ഗുണനിലവാര ലൂപ്പ് അടയ്ക്കുന്നതിന്റെ ഒരു പ്രധാന ഘടകമാണ് പിഒകളെയും പിഎസ്ഒകളെയും കണക്കുകൂട്ടുന്നതിലും ഇത് പ്രധാനമാണെന്ന് ഞങ്ങൾ കണ്ടു സിഒകളുടെ കൈവരിക്കൽ തലത്തിൽ ഒരു പുരോഗതി ഉണ്ടെങ്കിൽ പിഒകളുടെയും പിഎസ്ഒകളുടെയും നേട്ടത്തിന്റെ നിലവാരവും മെച്ചപ്പെടുകയും ഗുണനിലവാര ലൂപ്പ് അടയ്ക്കുകയും ചെയ്യുന്നത് കോഴ്സ് തലത്തിലും പ്രോഗ്രാം തലത്തിലും അത്യാവശ്യമാണ് അതിനാൽ അങ്ങനെയാണ് ഞങ്ങൾ വിലയിരുത്തൽ ഘട്ടത്തിലേക്ക് നോക്കുന്നത് മെച്ചപ്പെടുത്തലുകൾക്കായുള്ള നിർദ്ദേശങ്ങൾ മെച്ചപ്പെടുത്തൽ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ സംഗ്രഹ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവ ഓരോ ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിനുശേഷമുള്ള നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഡിസൈൻ ഘട്ടത്തിൽ നിർണ്ണയിച്ചിട്ടുള്ള ടാർഗെറ്റുകളെ താരതമ്യപ്പെടുത്തുമ്പോൾ സിഒകളുടെ യഥാർത്ഥ നേട്ടം കൈവരിക്കൽ ലെവലുകൾ അവ ടാർഗെറ്റ് ലെവലിൽ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ എത്താൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് എത്തിച്ചേരാൻ എത്ര മാർജിൻ വേണ്ടതാണെന്നും ടാർഗെറ്റ് ലെവലുകൾ കവിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ എത്രത്തോളം ടാർഗെറ്റ് ലെവലിനെ മറികടന്നു കോഴ്സിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും സമപ്രായക്കാരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അധ്യാപന സാമഗ്രികൾ പഠന സാമഗ്രികൾ ഉപയോഗിച്ച മൂല്യനിർണ്ണയ ഉപകരണങ്ങൾ ഓരോ വ്യക്തിഗത മൂല്യനിർണ്ണയ ഉപകരണത്തിന്റെയും ഗുണനിലവാരം മുഴുവൻ മൂല്യനിർണ്ണയ പദ്ധതിയും മിഡ് കോഴ്സ് സർവേകളിലൂടെയും കോഴ്സ് എക്സിറ്റ് സർവേയിലൂടെയും വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക് ലഭിക്കും അതിനാൽ ഇവയെല്ലാം അടിസ്ഥാനമാക്കി ഞങ്ങൾ മെച്ചപ്പെടുത്തലിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു സൂചിപ്പിച്ചതുപോലെ ഇവ റെക്കോർഡുചെയ്ത് വകുപ്പിന് ലഭ്യമാക്കണം അതേ ഇൻസ്ട്രക്ടർ അടുത്ത തവണ കോഴ്സ് നൽകാൻ പോകുന്നില്ലെങ്കിലും ഇവ ആവശ്യമാണ് തീർച്ചയായും ഒരേ ഇൻസ്ട്രക്ടർ വാഗ്ദാനം ചെയ്യുന്നുവെങ്കിൽ അത് കൂടുതൽ മികച്ചതാണ് ഇൻസ്ട്രക്ടർക്ക് തീർച്ചയായും നടപ്പിലാക്കാനും ഈ മെച്ചപ്പെടുത്തൽ പദ്ധതികളെല്ലാം സംയോജിപ്പിക്കാനും ഉയർന്ന തോതിലുള്ള CO കൈവരിക്കലുകൾ നേടാനും കഴിയും അതിനാൽ അതാണ് വിലയിരുത്തൽ ഘട്ടത്തിലെ പ്രധാന വശം അഭ്യാസം വിലയിരുത്തൽ ഘട്ടത്തിലേക്ക് സംഭാവന ചെയ്യുന്ന ഏതെങ്കിലും അധിക പ്രക്രിയകൾ നൽകുക വ്യായാമത്തിന്റെ ഫലങ്ങൾ tale iisctagmail com ൽ പങ്കിട്ടതിന് നന്ദി അടുത്ത യൂണിറ്റിൽ കോഴ്സ് എക്സിറ്റ് സർവേയുടെ രൂപകൽപ്പനയും ഉപയോഗവും നാം മനസിലാക്കും കോഴ്സിന്റെ എല്ലാ വശങ്ങളും സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ നിന്ന് ഫീഡ്ബാക്ക് നേടുന്നതിനുള്ള ഒരു പ്രധാന ഘടകമാണ് കോഴ്സ് എക്സിറ്റ് സർവേ കോഴ്സ് എക്സിറ്റ് സർവേയുടെ രൂപകൽപ്പനയും കോഴ്സ് എക്സിറ്റ് സർവേയിൽ നിന്നുള്ള ഡാറ്റയുടെ ഉപയോഗവും കോഴ്സിന്റെ മെച്ചപ്പെടുത്തൽ പദ്ധതികളിൽ ഒരു പ്രധാന ഘടകമായി മാറും നന്ദി ബൈ